അതിനാൽ നമുക്ക് ചർച്ച തുടരാം അവസാന പ്രഭാഷണത്തിൽ ലീയുടെ അൽഗോരിതംLee's algorithm സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ലീയുടെ അൽഗോരിതത്തിന്റെ 3 ഘട്ടങ്ങളിലായി 3 സെല്ലുകൾ എങ്ങനെ പൂരിപ്പിക്കും എങ്ങനെയാണ് പാത പിൻവാങ്ങുന്നത് എങ്ങനെയാണ് മാർക്ക് സെല്ലുകൾ മായ്ക്കുന്നത് അതുപോലെ ലീയുടെ ഭാവി റണ്ണുകൾക്ക് ഒരു തടസ്സമായി മറ്റ് 2 പോയിന്റുകളിൽ ചേരുന്നതിനുള്ള മാർക്ക് അടയാളപ്പെടുത്തുന്നത് എന്നിവ ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാൽ ഈ സമീപനങ്ങളുടെ ചെറിയൊരു സ്ഥലം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം ആരംഭിക്കാം അതിനാൽ ലീയുടെ അൽഗോരിതം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പാത പിൻവലിച്ച ഇതുപോലുള്ള ഒരു പ്രശ്നം നോക്കി ഇപ്പോൾ ഈ ഡയഗ്രാമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എനിക്ക് ഒരു മൂലയിൽ ഒരു ഉറവിടമുണ്ടെന്ന് കരുതുക നമുക്ക് ഇവിടെ പറയാം എന്റെ ലക്ഷ്യം മറ്റേ മൂലയാണ് അതിനാൽ പാത്ത് നിലവിലുണ്ടെങ്കിൽ അതിന്റെ ദൈർഘ്യം എന്തായിരിക്കും M വരികളും N നിരകളും ഉണ്ടെങ്കിൽ ഇതുപോലൊരു പാത പിന്തുടരേണ്ടതുണ്ടെന്ന് നമുക്ക് പറയാം വളവുകളുണ്ടാകാം എന്നാൽ നിങ്ങൾ ലേബൽ ചെയ്യേണ്ട മൊത്തം സെല്ലുകളുടെ എണ്ണം M N − 1 ആയിരിക്കും ഈ സാഹചര്യത്തിൽ അത് 1 2 3 4 5 6 7 8 9 10 11 കൂടാതെ 12 അതിനാൽ ഇത് 6 7−1 M N − 1 ആയിരിക്കും അത് ഏതെങ്കിലും ജോഡി s t എന്നിവയ്ക്കിടയിലുള്ള ഒരു പാതയുടെ പരമാവധി ദൈർഘ്യമായിരിക്കും അതാണ് ഏറ്റവും മോശം അവസ്ഥ അതിനാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മെമ്മറി ആവശ്യകത കണക്കാക്കാം അതിനാൽ നമ്മൾ പറയുന്നത് ഓരോ സെല്ലിനും 1 നും L നും ഇടയിൽ ഒരു സംഖ്യ സംഭരിക്കേണ്ടതുണ്ട് അവിടെ L സാധ്യമായ പരമാവധി പാത്ത് ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഒരു M by N ഗ്രിഡിനായി ഞാൻ പറഞ്ഞു ഞാൻ അത് വീണ്ടും കാണിക്കുന്നു എനിക്ക് 2 ഡൈമൻഷണൽ ഗ്രിഡ് ഉണ്ടെന്ന് കരുതുക M നിരകളുടെയും N നിരകളുടെയും എണ്ണം എന്റെ ഉറവിടം ഒരു മൂലയിലും ലക്ഷ്യം മറ്റൊരു മൂലയിലുമാണെങ്കിൽ ഈ ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ നീളം ഇതുപോലെയായിരിക്കും ഈ നീളം എനിക്ക് ഉണ്ടായിരുന്നതിന് തുല്യമായിരിക്കും M N − 1 പറഞ്ഞു അതിനർത്ഥം ഞങ്ങൾ ഈ സെല്ലുകൾ ലേബൽ ചെയ്യുമ്പോൾ ഈ M N − 1 എനിക്ക് ഉപയോഗിക്കേണ്ട പരമാവധി ലേബലിനെ സൂചിപ്പിക്കുന്നു നമ്പർ അനുസരിച്ച് ഇത് 1 2 3 4 5 പോലെ പരമാവധി സംഖ്യ M N − 1 ആകാം N ന്റെ ഗ്രിഡ് വലത് M ന്റെ ഞങ്ങളുടെ പ്രശ്നത്തേക്കാൾ കൂടുതലല്ല അതിനാൽ M N − 1 വളരെയധികം സംഖ്യകൾ ഞാൻ പ്രതിനിധാനം ചെയ്യണം ഞാൻ ഒരു അദ്വിതീയ ബിറ്റ് കോമ്പിനേഷനെ പ്രതിനിധാനം ചെയ്യണം അത് ശൂന്യമായ കോശങ്ങളെയും മറ്റൊരു ബിറ്റ് കോമ്പിനേഷനെയും തടസ്സങ്ങളെ സൂചിപ്പിക്കും അതിനാൽ മൊത്തം എൽ പ്ലസ് 2 വ്യത്യസ്തമായ നിരവധി കാര്യങ്ങൾ വേർതിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ബൈനറി സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് എൽ പ്ലസ് 2 വ്യതിരിക്തമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വേർതിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലോഗ് 2 എൽ2 സീലിംഗ് log2 L2 sealing ആവശ്യമാണ് അതിനാൽ ഓരോ കോശത്തിന്റെയും അവസ്ഥയെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് ധാരാളം ബിറ്റുകൾ ആവശ്യമാണ് ഓരോ കോശത്തിന്റെയും അവസ്ഥ ഒന്നുകിൽ ശൂന്യമായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു തടസ്സമാകാം അല്ലെങ്കിൽ 1 നും ഈ പരമാവധി L നും ഇടയിൽ അക്കമിട്ട ഒരു ലേബൽ ആകാം സീലിംഗ് എന്നത് ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യയെക്കാൾ കൂടുതലോ തുല്യമോ ആണ് ഈ സാധനം ഒരു ⌈ log2 L2⌉ എന്നതിനർത്ഥം നമുക്ക് പറയാം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം L എന്നത് 3 ന് തുല്യമാണെന്ന് പറയട്ടെ നന്നായി L 2 ഈ മൂല്യം L2 ആയിരിക്കും 5 log2 5 5 log2 4 എന്നാൽ 2 ലോഗ് 2 5 എന്നാൽ 2 പോയിന്റ് എന്തെങ്കിലും എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് 2 പോയിന്റ് എന്തോ ആയിരിക്കും അതിനാൽ ഈ സംഖ്യയെക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും അതിനാൽ ഈ സംഖ്യ 2 ന്റെ ഈ പരിധി 2 ആയിരിക്കും കൃത്യമായി 2 കാരണം 2 എന്നത് ഒരു പൂർണ്ണസംഖ്യയും 2 നേക്കാൾ വലുതോ തുല്യമോ ആയ സംഖ്യ 2 തന്നെയാണ് അതിനാൽ 2 15 എന്ന് പറഞ്ഞാൽ 2 15 സീലിംഗായി മാറുമെന്ന് പറയുക അത് 3 ആയി മാറും ഇത്തരത്തിലുള്ള നമ്പറിംഗ് ഉള്ള ലീയുടെ അൽഗോരിതത്തിലെLee's algorithm ഓരോ സെല്ലിനും ഇത് മെമ്മറി ആവശ്യകതയാണ് ഇപ്പോൾ ചില സാമ്പിൾ ഗ്രിഡ് വലുപ്പങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം അതിനാൽ ഞങ്ങൾക്ക് 2000 മുതൽ 2000 ഗ്രിഡ് ഉണ്ട് B എന്നത് ഈ L ന്റെ യഥാർത്ഥ സംഖ്യ സൂചിപ്പിക്കുന്നു L ഉം B ഉം ഒരേ M N − 1 ആണ് അതിനാൽ M N ഈ 12 ആണ് ഇത് 12 ബിറ്റിന്റെ എണ്ണമാണ് ക്ഷമിക്കണം ഈ L 2 ഇതിനെ ഞങ്ങൾ ബി ക്യാപിറ്റൽ ബി എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇത് M − N − 1 M N − 1 2 ആണ് ഇത് M N 1 ആയി മാറുന്നു അതിനാൽ എം 2000 ആണ് എൻ 2000 ആണ് 200020001 ആണ് 4001 അതിനാൽ ഞാൻ ഈ സീലിംഗ് കാണിക്കുന്നില്ല സീലിംഗ് ഉണ്ട് ഇതിന്റെ സീലിംഗ് എടുത്താൽ നിങ്ങൾക്ക് 12 കാരണം 212 എന്നത് 4096 ആണ് അത് അതിനെക്കാൾ കുറവാണ് അതിനാൽ ആവശ്യമായ മെമ്മറി വളരെയധികം സെല്ലുകൾ ആയിരിക്കും ഓരോ സെല്ലിനും 12 ബിറ്റുകളുണ്ട് നിങ്ങൾ അതിനെ ബൈറ്റുകളാക്കി മാറ്റിയാൽ ഇത് 6 മെഗാബൈറ്റായി മാറും 3000 ആയി 3000 ഗ്രിഡിലേക്ക് നീങ്ങുക അവിടെ B 300030001 ലോഗ് ആയി മാറുന്നു 13 213 എന്നത് 8196 92 ആണ് അതിനാൽ ആവശ്യമായ മെമ്മറി 3000 മുതൽ 3000 വരെ 13 ആയിരിക്കും അത് 14 6 മെഗാബൈറ്റിലേക്ക് വരും 4000 ബൈ 4000 ഗ്രിഡിലേക്ക് പോകുക നിങ്ങളുടെ മെമ്മറി B ആവശ്യമായി വരും 13 മെമ്മറി 26 മെഗാബൈറ്റായിരിക്കണം ഈ നാമമാത്ര വലുപ്പത്തിലുള്ള സെല്ലുകൾക്ക് പോലും മെഗാബൈറ്റ് ഓർഡറിന്റെ ആവശ്യകത ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ നിങ്ങൾക്ക് വിവിധ ചിപ്പുകളിലുള്ള പ്രായോഗിക ഗ്രിഡ് വലുപ്പങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആകാം അതിനടുത്തായി അങ്ങനെ ഈ സംഖ്യ വളരെ വലുതായിരിക്കും മെമ്മറി ആവശ്യകത വളരെ വലുതായിരിക്കും അതിനാൽ ലീയുടെ അൽഗോരിതത്തിന്റെ സംഭരണ ആവശ്യകത നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാനാകുമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണുന്നു അതിനാൽ ചില മെച്ചപ്പെടുത്തലുകൾ ഇവ വിശദീകരിക്കുന്നതിനുമുമ്പ് ഈ നമ്പറിംഗ് സ്കീം 1 2 3 4 5 ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാന ആശയം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം ലീയുടെ അൽഗോരിതത്തിൽLee's algorithm ഞങ്ങൾ തുടർച്ചയായി ഇതുപോലെ കോശങ്ങൾ എണ്ണുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തുന്ന 2 കാര്യങ്ങൾ ഉണ്ട് ഒരു സംഖ്യയുടെ നിലവിലുള്ളതും അടുത്തതുമായ കോശങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നു രണ്ടാമതായി ഓരോ ലെവലിനും ഞാൻ 7 ൽ ആണെന്ന് നമുക്ക് പറയാം അതിനാൽ അതിന് തൊട്ടുമുമ്പുള്ള സെൽ അതിനെക്കാൾ ഒന്ന് കുറവായിരിക്കും മുമ്പത്തെ സെല്ലുകൾക്കും സ്ഥിരസ്ഥിതി നിലകളുണ്ട് എന്നാൽ ഒരു കാര്യം ശരിയാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേക നിലവിലുള്ള സെൽ ഉണ്ട് നമുക്ക് അതിനെ P എന്ന് വിളിക്കാം അടുത്ത സെൽ അതിനെ N എന്ന് വിളിക്കാം മുമ്പത്തെ സെൽ അതിനെ R എന്ന് വിളിക്കാം അവയെല്ലാം വ്യത്യസ്തമായവയെ വ്യത്യസ്തമായ രീതിയിൽ ലേബൽ ചെയ്തിരിക്കുന്നു P 7 ആണെങ്കിൽ ഉദാഹരണം P ആണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തു 7 ൽ നിന്ന് പിൻവാങ്ങുന്നു ഈ 1 2 3 4 5 എന്നിവയ്ക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണിത് ഈ ശ്രേണിയിൽ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ആദ്യത്തെ ബദൽ ഇതാണ് 1 2 3 4 5 6 എന്നതിന് പകരം 1 2 3 വീണ്ടും 1 2 പോലുള്ള ഒരു സംഖ്യാ പദ്ധതി ഞങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പറയുക ഈ ക്രമത്തിൽ ഞങ്ങൾ സെല്ലുകളുടെ നമ്പറിംഗ് തുടരുന്നു ഇവിടെ നിങ്ങൾ ചില പ്രോപ്പർട്ടികൾ നോക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഏകപക്ഷീയമായ നമ്പർ എടുക്കുക നമുക്ക് ഇത് 2 എന്ന് പറയാം ഈ 2 ന് അടുത്ത ലേബൽ 3 ആണ് മുമ്പത്തെ ലേബൽ 1 അവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതുപോലെ വ്യത്യസ്തമാണ് മറ്റെന്തെങ്കിലും എടുക്കുക ഉദാഹരണത്തിന് 3 എടുക്കുക നിങ്ങളുടെ മുമ്പത്തെ ലെവൽ 2 ആണ് അടുത്ത ലെവൽ വീണ്ടും 1 ആയിരിക്കും എല്ലാം വ്യത്യസ്തമാണ് അതിനാൽ വ്യത്യസ്ത സംഖ്യകളുടെ പ്രോപ്പർട്ടിയും ഇതിനുള്ളതാണ് അതിനാൽ ഈ രീതിയിൽ 1 2 3 4 5 6 ഉപയോഗിക്കുന്നതിനുപകരം എനിക്ക് കൂടുതൽ ഫലപ്രദമായ ഒരു സംഖ്യാ സ്കീം 1 2 3 1 2 3 ഉപയോഗിക്കാൻ കഴിയും കാരണം മുമ്പത്തെ കേസിൽ ഞാൻ പരമാവധി L വരെയാണ് പോകുന്നത് എന്നാൽ ഇവിടെ എനിക്ക് ഒരു നമ്പർ 3 ലേക്ക് പോകാം അതിൽ കൂടുതൽ അല്ല അങ്ങനെ ഞാൻ പരമാവധി 3 ലേക്ക് പോയാൽ ഓരോ സെല്ലിലും എന്റെ ബിറ്റുകളുടെ എണ്ണം 3 പ്ലസ് 2 ലേക്ക് മാത്രമേ ലോക്ക് ചെയ്യപ്പെടുകയുള്ളൂ എൽ പ്ലസ് 2 അല്ല 3 പ്ലസ് 2 ലേക്ക് ലോക്ക് ചെയ്യുക എന്നാൽ ഒരു സെല്ലിന് 3 3 ബിറ്റുകൾ മാത്രം അതിനാൽ നിങ്ങൾ ഇവിടെ മുമ്പത്തെ കണക്കുകൂട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ 12 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 13 കൊണ്ട് ഗുണിക്കുന്നു എന്നാൽ ഈ പുതിയ സംഖ്യാ പദ്ധതിയിൽ നമ്മൾ അതിനെ 3 കൊണ്ട് ഗുണിക്കണം അതിനാൽ ഇത് വെറും 1 5 മെഗാബൈറ്റായി മാറും നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യക്ഷമമായ ഒരു സ്കീം ഉണ്ട് നമുക്ക് മറ്റൊന്ന് നോക്കാം അതുകൊണ്ട് ഇവിടെ പറയുന്നത് നമ്മൾ അത് പോലെ 1 2 3 1 2 3 എന്നിവയിലേക്ക് പോകുന്നില്ല എന്നാണ് ഞങ്ങൾ 2 ലെവലുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഈ ശ്രേണി പിന്തുടരുന്നു 0 മറ്റൊരു 0 പിന്നെ 1 മറ്റൊന്ന് 1 0 മറ്റൊരു 0 1 മറ്റൊരു 1 എന്നിങ്ങനെ നിങ്ങൾ പോകുന്ന ക്രമം ഇതാണ് ഇപ്പോൾ പൂജ്യങ്ങളും നിറങ്ങളും വരയ്ക്കാൻ ഞങ്ങൾ 2 വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നു ഒരു ചുവന്ന 0 എന്നാൽ ഇത് ക്രമത്തിലെ രണ്ടാമത്തെ 0 ആണ് തുടർച്ചയായ രണ്ടു 0 ൽ ഇത് രണ്ടാമത്തെ 0 ആണ് ചുവപ്പ് 1 എന്നാൽ ഇത് രണ്ടാമത്തേതാണ് 1 അതുപോലെ നീല 0 എന്നാൽ ഇത് ആദ്യ 0 ആണെന്നും നീല 1 എന്നാൽ ഇത് ആദ്യത്തേതാണെന്നും അർത്ഥമാക്കുന്നു രണ്ടു 0 കളും രണ്ടു 1 കളും തിരിച്ചറിയുന്നത് ആദ്യത്തെ 1 ആണോ ആദ്യത്തെ 0 ആണോ എന്നതിനെ ആശ്രയിച്ചാണ് ഞാൻ നമ്പറിങ് ചെയുമ്പോൾ ആദ്യത്തെ 0 ആണോ രണ്ടാമത്തെ 0 ആണോ എന്നത് കൃത്യമായി ട്രാക്ക്ചെയ്യാൻ സാധിക്കും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുമെങ്കിൽ കൃത്യമായി രണ്ടും തിരിച്ചറിയാം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ലേബലുകൾ ഉപയോഗിക്കാം ഞാൻ ഈ ചുമപ്പ് എടുക്കുന്നു ഇതിന്റെ മുമ്പത്തെ അവസ്ഥ നീല 1 അടുത്തത് നീല 0 ഇനി വേറെ സ്റ്റേറ്റ് എടുക്കാം നീല 1 നീല 1 ന്റെ മുമ്പത്തെ അവസ്ഥ ചുമന്ന 0 അടുത്തത് ചുമന്ന 1 അതിനാൽ നിങ്ങൾ പൂജ്യങ്ങൾക്കായി പരിശോധിക്കുന്നു കൂടാതെ എല്ലാ 4 കേസുകളിലും മുമ്പത്തേതും അടുത്തതും അയൽക്കാർ വ്യതിരിക്തരാകും അവർ ചുവപ്പ് 0 അല്ലെങ്കിൽ ചുവപ്പ് 1 നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ ചുവപ്പ് 0 ചുവപ്പ് 1 എന്നിവ കാണുന്നു ഞാൻ വ്യക്തമായി സംഭരിക്കുന്നില്ല എന്നാൽ നമ്പറിംഗിനായി ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു അതിനാൽ ഈ നമ്പറിംഗ് സ്കീമും പ്രവർത്തിക്കും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചുതരാം എന്നാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ നമ്പർ 3 2 ആയി കുറയുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഒരു സെല്ലിന് 2 ബിറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഈ സാഹചര്യത്തിൽ ഇത് 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരു മെഗാബൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഇത് 1 മെഗാബൈറ്റ് മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംഭരണ ഇടം കുറയ്ക്കാൻ കഴിയും എന്നാൽ 0 0 1 1 ലേബലിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനായി ഞാൻ പറഞ്ഞത് 1 5 മെഗാബൈറ്റ് ആണ് ഇതിന് 1 മെഗാബൈറ്റ് ആവശ്യമാണ് നമുക്ക് അതേ ഉദാഹരണം എടുക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ 0 0 1 1 എന്നിവ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു നമുക്ക് ഒരു ചുവപ്പ് 0 ഉപയോഗിച്ച് തുടങ്ങാം ഉറവിടം തൊട്ടടുത്ത അയൽവാസികൾ എന്നിവരെ ഞാൻ അവരെ 0 കളർ ചെയ്യുന്നു രണ്ടാമത്തേത് 0 കൺവെൻഷനായി ഞാൻ അതിനെ നീല 0 എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ 0 I ലേബൽ അപ്പോൾ ഞാൻ ലേബൽ 1 ലേബൽ 1 പിന്നെ നീല 1 ഈ വഴി ഞാൻ ചുവപ്പ് 0 നീല 0 ചുവപ്പ് 1 എന്നിങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനാൽ ഇവിടെ ഞാൻ ടാർഗെറ്റിൽ സ്പർശിക്കുന്നു ഇപ്പോൾ ഞാൻ ലേബൽ ചെയ്യുന്ന രീതി നിങ്ങൾ കാണുന്നു ഞാൻ ഒരു ചുവപ്പ് 1 കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഒരു ചുവപ്പ് 1 കാണുന്നു മുമ്പത്തെ സെൽ ഒരു 0 ആണ് കൂടാതെ 0 ൽ നിന്ന് മുമ്പത്തെ സെൽ മറ്റൊരു 0 ആണ് അതിൽ നിന്ന് മുമ്പത്തെത് മറ്റൊരു 1 മറ്റൊരു 1 ആയിരിക്കും അതിനർത്ഥം ചുവപ്പ് 1 ൽ നിന്ന് നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ 0 0 1 1 0 0 1 1 എന്നിവ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ എത്തുന്ന അതേ ക്രമത്തിൽ 0 0 1 1 0 0 നിങ്ങൾ തിരിച്ചെത്തുന്നതായി നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാത പിന്തുടരാം 0 0 1 1 0 0 അതുപോലെ

അടുത്ത ലേബലും മുമ്പത്തെ ലേബലും തമ്മിൽ നിങ്ങൾ വേർതിരിച്ചറിയുന്ന അതേ കാര്യം ഈ ലേബലിംഗ് സ്കീമിൽ അടുത്ത ലേബൽ 0 ആണെങ്കിൽ മുമ്പത്തെ ലേബൽ 1 അടുത്ത ലേബൽ 1 ആണെങ്കിൽ മുമ്പത്തെ ലേബൽ 0 ഈ അവസ്ഥ നിലനിർത്തുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ പാത അദ്വിതീയമായി കണ്ടെത്താനാകും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പരമ്പരാഗത ലീയുടെ നമ്പറിംഗ് സ്കീമിനെLees numbering scheme അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ സംഭരണം ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വഴി ലഭിക്കും ഇപ്പോൾ നിരവധി ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട് അതായത് പ്രവർത്തന സമയം കുറയ്ക്കുന്നതിന് ലീയുടെ അൽഗോരിതത്തിൽLee's algorithm നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏകദേശങ്ങൾ അത്തരം 3 തന്ത്രങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആദ്യത്തേത് പറയുന്നു അതിനാൽ നിങ്ങൾക്ക് കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോടി പോയിന്റ് ഉറവിടവും ലക്ഷ്യവുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ആരെയാണ് എസ് എന്ന് വിളിക്കുന്നത് ടി എന്ന് വിളിക്കുന്നത് അതിനാൽ നിങ്ങൾ ആദ്യത്തേത് എസ് രണ്ടാമത്തേത് ടി അല്ലെങ്കിൽ ആദ്യത്തേത് ടി രണ്ടാമത്തേത് എസ് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഏത് ഉറവിടം വിളിക്കുന്നു ഏത് ടാർഗെറ്റായി വിളിക്കുന്നു എന്നത് പ്രശ്നമല്ല അതിനാൽ ഗ്രിഡിന്റെ മധ്യഭാഗത്ത് നിന്ന് ഏറ്റവും അകലെയുള്ള പോയിന്റ് നിങ്ങൾ ആരംഭ പോയിന്റിന്റെ ഉറവിടമായി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഈ ഹ്യൂറിസ്റ്റിക് പറയുന്നത് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം ഈ ഗ്രിഡിൽ എനിക്ക് കോണിനടുത്തുള്ള ഒരു പോയിന്റും കേന്ദ്രത്തിന് സമീപമുള്ള ഒരു പോയിന്റും ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ പറയാം അതിനാൽ ഈ ഹ്യൂറിസ്റ്റിക്സ് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പോയിന്റാണ് നിങ്ങൾ അത് ആരംഭ പോയിന്റായി ഉപയോഗിക്കുന്നു കേന്ദ്രത്തോട് ഏറ്റവും അടുത്തത് ഞങ്ങൾ ലക്ഷ്യമായി ഉപയോഗിക്കുന്നു അപ്പോൾ എന്താണ് പ്രചോദനം അതിനാൽ പ്രചോദനം ലളിതമാണ് നിങ്ങൾ എസ് ൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ തരംഗത്തിന്റെ മുൻഭാഗം ഇതുപോലെ കാണിക്കുന്നു അയൽക്കാരെ 1 എന്ന് ലേബൽ ചെയ്ത ശേഷം 2 എന്ന് ലേബൽ ചെയ്തത് 3 പോലെ ലേബൽ ചെയ്തത് ഞങ്ങൾ തുടരുന്നു അപ്പോൾ നിങ്ങൾ T യിൽ എത്തിച്ചേരും എന്നാൽ നിങ്ങൾ T യിൽ തുടങ്ങുകയാണെങ്കിൽ തരംഗ മുന്നണികൾക്ക് 4 ദിശകളിലേക്കും നീങ്ങാൻ കഴിയും 1 എന്നിട്ട് 2 എന്നിട്ട് 3 എന്നിങ്ങനെ 4 ഇതുപോലെ അതായത് നിങ്ങൾ T യിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ അളവിലുള്ള സെല്ലുകൾ ലേബൽ ചെയ്യേണ്ടി വരും ഒരു മൂലയിൽ നിങ്ങൾ ഈ 90 ഡിഗ്രിയിൽ മാത്രം നിങ്ങളെത്തന്നെ പരിമിതപ്പെടുത്തുന്നു ബാക്കിയുള്ള 270 ഡിഗ്രി നിങ്ങൾ വേവ് ഫ്രണ്ട് പ്രചരിപ്പിക്കുന്നില്ല അതിനാൽ ഈ കേസിൽ നിങ്ങൾ ലേബൽ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതിനാൽ അൽഗോരിതം വളരെ വേഗത്തിൽ പ്രവർത്തിക്കും ശരിയാണ് നിങ്ങൾ മാറുന്ന സെല്ലുകളുടെ എണ്ണത്തിന് ആനുപാതികമായി പ്രവർത്തിക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ശരിയായി ലേബൽ ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നു റിട്രേസ് സമയത്ത് നിങ്ങൾ ലേബൽ ചെയ്യുന്ന കൂടുതൽ സെല്ലുകൾ ഏറ്റവും മോശം അവസ്ഥയിലുള്ള നിരവധി സെല്ലുകൾ സ്കാൻ ചെയ്യേണ്ടിവരും അതിനാൽ ഇത് ആദ്യത്തേതാണ് രണ്ടാമത്തേത് പറയുന്നു നിങ്ങൾ എസ് ടി എന്നിവയിൽ നിന്ന് വേവ് ഫ്രന്റുകൾ സൃഷ്ടിക്കും ഇതിനെ ഡബിൾ ഫാൻ ഔട്ട് എന്ന് വിളിക്കുന്നു ഉറവിടത്തിൽ നിന്നും ടാർഗെറ്റിൽ നിന്നും തരംഗങ്ങൾ പ്രചരിപ്പിക്കുക തരംഗ മുന്നണികൾ സ്പർശിക്കുന്നതുവരെ ലേബലിംഗ് തുടരുന്നു അതിനാൽ ശരിയായ രേഖാചിത്രം ഉപയോഗിച്ച് നമുക്ക് ഇത് വീണ്ടും വിശദീകരിക്കാം ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും പറയാൻ ഞാൻ അനുവദിച്ചു ഇത് നിങ്ങളുടെ എസ് ആണെന്നും ഇത് നിങ്ങളുടെ ടി ആണെന്നും നമുക്ക് പറയാം അതിനാൽ ഈ രീതി എന്താണ് പറയുന്നത് നിങ്ങൾ S ൽ നിന്ന് മാത്രമല്ല ടിയിൽ നിന്നും വേവ് ഫ്രണ്ട് പ്രചരണം ആരംഭിക്കുന്നു അതിനാൽ തരംഗ മുന്നണികൾ എവിടെയെങ്കിലും സ്പർശിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു പാത ലഭിക്കും അതിനാൽ ഇവിടെ അവബോധജന്യമായ ആശയം നിങ്ങൾ ഒരു സ്ഥാനത്തേക്ക് മാത്രം ആരംഭിക്കുകയാണെങ്കിൽ തരംഗ മുന്നണികൾ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ രണ്ട് ദിശകളിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ വേവ് ഫ്രണ്ട് എല്ലാ ദിശകളിലേക്കും വികസിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല അതിനുമുമ്പ് പരസ്പരം സ്പർശിക്കുന്നു അതിനാൽ തരംഗ മുന്നണികൾ അവയുടെ വലുപ്പത്തിൽ പതുക്കെ വികസിക്കുകയും അവ പരസ്പരം അടുക്കുകയും ചെയ്യുന്നു അതിനാൽ അവ അവയുടെ പൂർണ്ണ വലുപ്പത്തിലേക്ക് വികസിക്കുന്നതിനും സെല്ലുകൾ വളരെ വേഗത്തിൽ നിറയ്ക്കുന്നതിനും മുമ്പ് അവ പരസ്പരം സ്പർശിക്കുന്നു അതിനർത്ഥം അതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു പാത ലഭിക്കുന്നു എന്നാണ് അതിനാൽ ഇവിടെ നിങ്ങൾ ലേബൽ ചെയ്യുന്ന സെല്ലുകളുടെ ശരാശരി എണ്ണം ഒരു പോയിന്റിൽ നിന്ന് വേവ് ഫ്രണ്ട് പ്രചരണം ആരംഭിക്കുന്ന കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി ഇപ്പോൾ മൂന്നാമത്തെ തന്ത്രമാണ് ഫ്രെയിമിംഗ് ഇവിടെ നിങ്ങൾ ഒരു കൃത്രിമ അതിർത്തി അല്ലെങ്കിൽ ഒരു കൃത്രിമ ദീർഘചതുരം സങ്കൽപ്പിക്കുന്നു അത് ടെർമിനൽ ജോഡികൾക്ക് പുറത്താണ് ഇത് ഏറ്റവും ചെറിയ ബൌണ്ടിംഗ് ബോക്സിനെക്കാൾ 10 മുതൽ 20 ശതമാനം വരെ വലുതാണ് ഞാൻ ഇത് വീണ്ടും ചിത്രീകരിക്കട്ടെ എനിക്ക് ഇവിടെ ഒരു പോയിന്റുണ്ടെന്നും കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റുണ്ടെന്നും നമുക്ക് പറയാം അതിനാൽ നിങ്ങൾ കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചതുരാകൃതിയിലുള്ള ബോണ്ടിംഗ് ബോക്സ് നിങ്ങൾ സങ്കൽപ്പിക്കുന്നു എന്നതാണ് ഇത് പറയുന്നത് ഇത് ഇതുപോലെയാകാം ഇത് ഈ ചെറിയ ബൌണ്ടിംഗ് ദീർഘചതുരത്തേക്കാൾ ഏകദേശം 10 മുതൽ 20 ശതമാനം വരെ വലുതാണ് അതിനാൽ നിങ്ങൾ ഈ കുറ്റി എടുക്കുകയാണെങ്കിൽ ദീർഘചതുരം ഇതാണ് ഈ അതിർത്തി കടക്കുക നിങ്ങളുടെ വേവ് ഫ്രന്റുകൾ ഈ ദീർഘചതുരത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തും എന്നാണ് ഇതിനർത്ഥം അതായത് ഈ ദീർഘചതുരത്തിന് പുറത്തുള്ള സെല്ലുകൾ ലേബൽ ചെയ്യില്ല അതിനാൽ നിങ്ങൾ ശരിയായി ലേബൽ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം നേരിട്ട് നിയന്ത്രിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് 10 മുതൽ 20 ശതമാനം വരെ അധികമായി എടുക്കുന്നതിന്റെ കാരണം ഈ ചുവന്ന ദീർഘചതുരത്തിനുള്ളിൽ ഇതിനകം തന്നെ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു തടസ്സമുണ്ടാകാം അതിനാൽ ഇതുപോലുള്ള തടസ്സത്തിന് ചുറ്റുമുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തേണ്ടതായി വന്നേക്കാം അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ 10 മുതൽ 20 ശതമാനം വരെ അധികമായി എടുക്കുന്നു ഇപ്പോൾ ഈ സമീപനങ്ങൾ നിങ്ങൾക്ക് ചിലതരം ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവബോധജന്യമായ സമീപനങ്ങൾ ഇവയാണ് ഞങ്ങൾ ലേബൽ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഇതുകൂടാതെ നിങ്ങൾ നിർവ്വചിക്കുന്ന മറ്റൊരു സ്കീമും നിങ്ങൾക്ക് നൽകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത ചില പരമാവധി സംഖ്യ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ലേബൽ അവയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് കാരണം നിങ്ങളുടെ പരമാവധി പാതയുടെ ദൈർഘ്യം m ൽ മാത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ആ മീറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മീറ്ററിനെ ഒരു പാരാമീറ്ററായി എടുക്കാം വേവ് ഫ്രണ്ട് m നപ്പുറം പോകില്ല അതിനാൽ ഇവ നിങ്ങൾക്ക് പ്രവർത്തന സമയം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ചില സമീപനങ്ങളാണ് അവസാനമായി മൾട്ടി പോയിന്റ് വലകൾ കൈകാര്യം ചെയ്യാൻ ലീയുടെ അൽഗോരിതംLees algorithm വിപുലീകരിക്കാൻ കഴിയുന്ന ഒരു രീതി അല്ലെങ്കിൽ സമീപനം ഞങ്ങൾ പരിഗണിക്കുന്നു മൾട്ടി പോയിന്റ് നെറ്റ് എന്നാൽ നിങ്ങൾക്ക് 2 അല്ല 3 അല്ലെങ്കിൽ അതിലധികമോ ടെർമിനൽ പോയിന്റുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിരവധി വിപുലീകരണങ്ങളുണ്ടാകാം ഇവിടെ ഞാൻ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നെറ്റിന്റെ ടെർമിനലുകളിലൊന്ന് നിങ്ങൾ ഒരു സ്രോതസ്സായും ബാക്കിയുള്ളവ ടാർഗെറ്റുകളായും തിരഞ്ഞെടുക്കുന്നുവെന്ന് ഇത് പറയുന്നു ഒരു തരംഗം ലക്ഷ്യത്തിൽ ഒന്നിൽ എത്തുന്നതുവരെ ഉറവിടത്തിൽ നിന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങട്ടെ അതിനാൽ നിങ്ങൾ ലീയുടെ അൽഗോരിതംLees algorithm പിന്തുടരുക ഉറവിടത്തിൽ നിന്ന് നിങ്ങൾ അടിച്ച ലക്ഷ്യത്തിലേക്കുള്ള പാത നിങ്ങൾ നിർണ്ണയിക്കുന്നു അടുത്ത ഘട്ടത്തിൽ നിർണ്ണയിക്കപ്പെട്ട പാതയിലെ എല്ലാ കോശങ്ങളും ഉറവിട കോശങ്ങളായി തിരിച്ചറിയുന്നു കൂടാതെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഒരുമിച്ച് തരംഗ മുന്നണികൾ ഉയർന്നുവരുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചുതരുകയും എല്ലാ ലക്ഷ്യങ്ങളും കവർ ചെയ്യുന്നതുവരെ ഈ പ്രക്രിയ തുടരുകയും ചെയ്യും ഇവിടെ ഉറവിടവും 2 ടാർഗെറ്റുകളും ഉള്ള ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം തുടക്കത്തിൽ എല്ലാ ഘട്ടങ്ങളും കാണിക്കുന്നില്ല അതിനാൽ ഈ ലേബലിംഗ് S 1 1 1 2 2 2 2 ൽ തുടങ്ങുമെന്ന് ഞാൻ അനുമാനിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ T2 T1 നെ അപേക്ഷിച്ച് കൂടുതൽ അടുക്കും അതിനാൽ എസ് ആദ്യം ഈ T2 കണ്ടുപിടിക്കും കാരണം ഇത് ഏറ്റവും അടുത്തുള്ള അയൽവാസിയാണ് ഇതുപോലുള്ള ഒരു പാത S മുതൽ T2 വരെ നിർണ്ണയിക്കപ്പെടും ഈ നീല ബോക്സ് ശരിയായ പാതയെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ പാത തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ ഈ വിപുലീകരണം പറയുന്നത് ഇവയെല്ലാം ഇവിടെ ഇഷ്ടപ്പെടുന്നത് ഈ കോശങ്ങളെല്ലാം S മാത്രമല്ല T2 മാത്രമല്ല ഈ കോശങ്ങളെല്ലാം അവ ഉറവിട സെല്ലായി തിരിച്ചറിയുകയും ഈ അൽഗോരിതം ആരംഭിക്കുകയും ചെയ്യുന്നു 1 1 എന്നിങ്ങനെ ആരംഭിക്കുന്ന സംഖ്യ ഈ സെല്ലിന്റെ അയൽക്കാരനും 1 ആയിരിക്കും ഈ സെല്ലിന്റെ അയൽക്കാരൻ 1 ആയിരിക്കും ഇത് 1 ആകും ഇത് 1 ആകും ഇതും 1 ആയിരിക്കും അതിനാൽ ഞങ്ങൾ ഇത് ആരംഭിക്കുകയാണ് മുമ്പത്തെപ്പോലെ ഒരൊറ്റ പോയിന്റ് എസ് മാത്രമല്ല പാതയിലെ എല്ലാ ഗ്രിഡ് പോയിന്റുകളിൽ നിന്നും വേവ് ഫ്രണ്ട് എമേഷൻ ഈ രീതിയിൽ ഇത് തുടരുന്നു 2 വീണ്ടും ഇതുപോലെ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ ലഭിക്കും അതിനുശേഷം ഇത് ബന്ധിപ്പിക്കും അതിനാൽ നിങ്ങൾ T1 അടിച്ചതിനുശേഷവും ഈ പ്രക്രിയ തുടരും T3 ഉണ്ടെങ്കിൽ ഇത് തുടരും T3 അടുത്തതായി വരും അടുത്ത ഘട്ടത്തിൽ ഈ പോയിന്റുകളെല്ലാം തരംഗ മുന്നണികൾ പുറപ്പെടുവിക്കുകയും T3 വലത് സ്പർശിക്കുകയും ചെയ്യും അതിനാൽ ഇത് ശരിയായ രീതിയിൽ പോകുന്നതുപോലെ തിരിച്ചറിയപ്പെടുന്ന മറ്റൊരു പാതയായിരിക്കും അതിനാൽ ഈ പ്രഭാഷണത്തിൽ ലീയുടെ അൽഗോരിതത്തിന്റെLees algorithm ചില വ്യതിയാനങ്ങൾ ചർച്ച ചെയ്തതായി കരുതുന്നു ഇത് വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് സംഭരണത്തിന്റെ ഇടം ലാഭിക്കാൻ സഹായിക്കും കൂടാതെ മൾട്ടി പിൻ നെറ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന അൽഗോരിതം വിപുലീകരിക്കാൻ കഴിയുന്ന ചില ലളിതമായ വഴികളും അടുത്ത പ്രഭാഷണത്തിൽ പ്രവർത്തന സമയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ മറ്റ് ചില സമീപനങ്ങൾ ഞങ്ങൾ നോക്കും